നമ്മുടെ മുമ്പത്തെ ലക്ചറിൽ നമ്മൾ ജോസഫ് കോൺറാഡിന്റെ 'ഹാർട്ട് ഓഫ് ഡാർക്ക്നെസ്സ്' എന്ന നോവലിനെ കുറിച്ചും ആഫ്രിക്കയുടെ മേലുള്ള കൊളോണിയൽ വ്യവഹാരത്തെ കുറിച്ച് നോവൽ എങ്ങനെയാണ് ഒരു കോൺട്രാപെന്റൽ വായന തരുന്നത് എന്നതിനെ കുറിച്ചും ചർച്ച ചെ യ്തു പക്ഷേ നമ്മുടെ മുമ്പത്തെ ലക്ച്ചർ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തോടെയാണ് നമ്മൾ അവസാനിപ്പിച്ചത് ആ ചോദ്യം ഇതായിരുന്നു നോവലിനെ തന്നെ കോൺട്രാപെന്റലി നമുക്ക് വായിക്കാൻ സാധിക്കുമോ ജോസഫ് കോൺറാഡിന്റെ 'ഹാർട്ട് ഓഫ് ഡാർക്നെസ്സ്' എന്ന ടെക്സ്റ്റിനെ നമുക്ക് വായിക്കാനാവുമോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തെന്നാൽ കൊളോണിയൽ വ്യവഹാരത്തിന് എതിരായി പാശ്ചാത്യരാജ്യങ്ങളിൽ നിന്നും കഠിന വിമർശനങ്ങൾ ഉയർന്നുവന്നെങ്കിലും ആ വ്യവഹാരത്തിനെതിരായി കോൺറാഡിന്റെ 'ഹാർട്ട് ഓഫ് ഡാർക്നെസ്സിലും' വിമർശനങ്ങളുണ്ടെങ്കിലും ജോസഫ് കോൺറാഡ് കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ കൊളോണിയൽ മെട്രോപോളിസ് ആയ ഇംഗ്ലണ്ടിലുള്ള ഒരു പാശ്ചാത്യ എഴുത്തുകാരനാണെന്നത് നാം ഓർക്കണം അദ്ദേഹത്തിന്റെ നോവൽ 'ഹാർട്ട് ഓഫ് ഡാർക്നെസ്സ്' അതിൻറെ വിമർശനങ്ങൾക്കിടയിലും പ്രസിദ്ധീകരിച്ചത് മെട്രോപോളിസിലുള്ള ഒരു പ്രസാധകനാണ് പടിഞ്ഞാറിനെ അത് വിമർശിക്കുന്നുണ്ടെങ്കിൽ കൂടി അതിന്റെ പ്രാഥമിക വായനക്കാർ കൊളോണിയൽ മെട്രോപോളിസിൽ താമസിക്കുന്ന പാശ്ചാത്യരാണ് അതിനാൽ ഒരു തരത്തിൽ പറഞ്ഞാൽ 'ഹാർട്ട് ഓഫ് ഡാർക്നെസ്' എന്ന നോവൽ കൊളോണിയൽ ആദർശങ്ങൾക്കെതിരായ മൂർച്ചയേറിയ വിമർശനമാണ് എന്നാൽ മറ്റൊരു തരത്തിൽ ഈ വിമർശനങ്ങൾ എല്ലാം ഉയർന്നുവരുന്നത് കൊളോണിയൽ വ്യവഹാരങ്ങൾ നിർമ്മിച്ചെടുക്കുന്ന അതേ കേന്ദ്രത്തിൽ നിന്ന് തന്നെയാണ് ആയതിനാൽ ചോദ്യമിതാണ് മെട്രോപൊളിറ്റൻ കൊളോണിയൽ വ്യവഹാരത്തിന് എതിരാണെങ്കിൽ പോലും 'ഹാർട്ട് ഓഫ് ഡാർക്നെസ്' എന്ന നോവൽ കൊളോണിയൽ ചൂഷണം അടിസ്ഥാനം ആയിട്ടുള്ള മെട്രോപൊളിറ്റൻ സമൂഹങ്ങളുടെ മുൻവിധികളിൽ നിന്നും പക്ഷപാതങ്ങളിൽ നിന്നും മുക്തമാവാതിരിക്കാനുള്ള സാധ്യതയുണ്ടോ ഈ ചോദ്യത്തിന്റെ ഉത്തരം ഈ ലക്ച്ചറിൽ നമ്മൾ കാണാനിരിക്കുന്നത് പോലെ ഒരു വലിയ അതെ എന്നാണ് കോൺറാടും അദ്ദേഹത്തിന്റെ നോവലായ 'ഹാർട്ട് ഓഫ് ഡാർക്ക്നസ്സും' കൊളോണിയൽ സംരംഭത്തെ വിമർശിക്കുന്നുണ്ടെങ്കിൽ കൂടി വ്യവഹാരത്തെ കുറിച്ചുള്ള ചില പ്രധാനപ്പെട്ട ആദർശപരമായ അതിരുകൾ പങ്കുവയ്ക്കുന്നതായി കാണാം നോവലിനെ കോൺട്രാപ്ന്റലി വായിക്കുകയാണെങ്കിൽ ഇത് പ്രകടമാവും മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ നോവലിസ്റ്റ് ജോസഫ് കോൺറാട് ഒരിക്കലും വിചാരിക്കാത്ത തരത്തിൽ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ നിന്നും വ്യത്യസ്തമായി വായിക്കാൻ ശ്രമിച്ചാൽ ഇത് പ്രകടമാകും എന്നാൽ ഈ മറ്റൊരു കാഴ്ചപ്പാട് എന്തായിരിക്കും അത് കോളനിവൽക്കരിക്കപ്പെട്ട ആഫ്രിക്കക്കാരുടെ കാഴ്ചപ്പാടാണ് നോവലിൽ ഇല്ലാത്ത കോളനിവൽക്കരിക്കപ്പെട്ട ആഫ്രിക്കക്കാരുടെ ഈ വീക്ഷണമാണ് ഇനി വരുന്ന ലക്ച്ചർ മുഴുവനും നമ്മൾ കാണാൻ പോകുന്നത് നോവലിനെ കോൺട്രാപ്ന്റലി വായിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള മറ്റൊരു കാഴ്ചപ്പാട് നമുക്ക് തരാൻ ഇതിനു സാധിക്കും കാരണം കോളനിവൽക്കരിക്കപ്പെട്ട ആഫ്രിക്കക്കാർ നോവൽ വായിക്കുമെന്ന് ജോസഫ് കോൺറാട് പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല നോവൽ ശ്രദ്ധാപൂർവം വായിക്കുമ്പോൾ അതിൽ ആഫ്രിക്കയിലെ ജനോപദ്രവത്തേക്കുറിച്ച് ഒരുപാട് സംസാരിക്കുന്നത് കാണാം ക്രൂരത അനുഭവിക്കുന്ന ആഫ്രിക്കക്കാരോടുള്ള സഹതാപവും കാണാൻ സാധിക്കും പക്ഷെ ആത്യന്തികമായി നമ്മൾ കേൾക്കുന്നത് മാർലോയുടെ ശബ്ദം മാത്രമാണ് കോംഗോ പ്രദേശത്ത് പ്രവർത്തിക്കുന്ന കോളോണിയലിസത്തെ അദ്ദേഹം ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ കൂടി ബെൽജിയൻ കോളോണിയൽ അധികാരികളുടെ ഒരു ഏജന്റായിട്ടാണ് അദ്ദേഹം അവിടെ ജോലി ചെയ്യുന്നതെന്ന് നമുക്ക് മറക്കാൻ കഴിയില്ല അതുകൊണ്ട് അനുഭാവമുള്ള പാശ്ചാത്യരുടെ വീക്ഷണത്തിൽ നിന്നല്ലാതെ സത്യസന്ധമായ ഒരു ആഫ്രിക്കൻ കാഴ്ചപ്പാടിൽ നിന്ന് കൊണ്ട് നിങ്ങൾ നോവലിനെ വായിക്കുമ്പോൾ നമ്മൾ നോവലിന്റെ കോൺട്രാപ്പന്റൽ അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് എത്തിച്ചേരും കൂടാതെ ആഫ്രിക്കയിലെ കോളോണിയൽ വ്യവഹാരത്തെ കുറിച്ച് വിവരം നൽകുന്ന അതേ മുൻവിധികൾ കൊണ്ട് നോവൽ എങ്ങനെയാണ് സ്വയം വിവരം നേടുന്നത് എന്നതിലേക്കും നമ്മൾ എത്തുന്നു പക്ഷെ ആഫ്രിക്കൻ വീക്ഷണത്തിൽ നിന്ന് നോവലിനെ വായിക്കാൻ ശ്രമിക്കുന്നതിനു മുമ്പായി ആഫ്രിക്കൻ ചരിത്രത്തെ കുറിച് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ആഫ്രിക്കയിലെ കൊളോണിയൽ ഭരണത്തിന്റെ ചരിത്രം മാത്രമല്ല കോളനിവൽക്കരണത്തിന് മുമ്പുള്ള ആഫ്രിക്കയുടെ ചരിത്രം കൂടി മനസിലാക്കണം ഇതിനായി ഞാൻ ഘാനയിലെ പണ്ഡിതനും രാഷ്ട്രീയ നേതാവും ആയിട്ടുള്ള ആൽബർട്ട് അഡു ബോഹാൻ എഴുതിയ 'ആഫ്രിക്കൻ പെർസ്പെക്റ്റീവ്സ് ഓൺ കോളനിയലിസം' എന്ന മനോഹരമായ പുസ്തകത്തിലേക്ക് നീങ്ങുന്നു ഞാൻ ഈ പുസ്തകം തിരഞ്ഞെടുക്കാനുള്ള കാരണം അതിലുള്ള പാണ്ഡിത്യത്തിന്റെ ഗുണം കൊണ്ട് മാത്രമല്ല പകരം ഇത് വളരെ ചെറുതും നിഷ്പ്രയാസം വായിക്കാൻ സാധിക്കും എന്നത് കൊണ്ട് കൂടിയാണ് അതുകൊണ്ട് എപ്പോഴെങ്കിലും നിങ്ങളുടെ കയ്യിൽ ഈ പുസ്തകം എത്തുന്നെങ്കിൽ അത് മുഴുവനായി വായിക്കാൻ ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു ആഫ്രിക്കയുടെ ചരിത്രത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ കോളനിവൽക്കരണത്തിന്റെയും അതിന്റെ മുൻപും ഉള്ള സാഹചര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട തീയതികളിൽ ഒന്ന് 1884 നവംബർ 15 ആണ് ഈ തീയ്യതിയിൽ എന്താണ് സംഭവിച്ചത് അന്നാണ് ജർമനിയിലെ ബെർലിനിൽ ആഫ്രിക്കയുടെയും അതിന്റെ ഭൂപ്രദേശങ്ങളുടെയും വിധി നിർണയിക്കുവാൻ വേണ്ടി ഒരു യോഗം ആരംഭിച്ചത് അത് പിന്നീട് 1885 ജനുവരി 31 വരെ നീണ്ടു ഇത്രയും മാസങ്ങൾ കൊണ്ട് എടുത്ത തീരുമാനങ്ങൾ വളരെ ചരിത്രപ്രധാനമായതായിരുന്നു കാരണം അത് ആഫ്രിക്കൻ വൻകരയുടെ തന്നെ രാഷ്ട്രീയ ഭൂമിശാസ്ത്രം മാറ്റിയെഴുതി എത്ര വലുതായിരുന്നു ഈ മാറ്റം എന്ന് മനസ്സിലാക്കാൻ നമുക്ക് ഈ രണ്ട് ഭൂപടങ്ങളിലേക്ക് നോക്കാം ഇടതു ഭാഗത്തുള്ള ഭൂപടം കാണിക്കുന്നത് ബെർലിൻ സമ്മേളനത്തിന് കുറച്ചു വർഷങ്ങൾക്കു മുമ്പ് രാഷ്ട്രീയപരമായി ആഫ്രിക്ക എങ്ങനെയായിരുന്നു എന്നാണ് ഭൂഖണ്ഡത്തിന്റെ ഒട്ടുമിക്ക ഭാഗങ്ങളും ചെറിയ ഗോത്ര രാജ്യങ്ങളായി വിഭജിച്ചിരുന്നു ഇവിടെ മേലെയുള്ള ആ വലിയ പച്ച പ്രദേശം ഒഴികെ അത് തീർച്ചയായും ഓട്ടമൻ സാമ്രാജ്യത്തിൻറെ ഭാഗമാണ് അത് പോലെ മേലെയുള്ള ആ നീല പ്രദേശവും ഒഴികെ അത് ഫ്രഞ്ച് കോളനിയായിരുന്ന അൾജീരിയയാണ് ഇവയൊഴികെ നിങ്ങൾ ഭൂഖണ്ഡത്തിന്റെ തെക്ക് ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ കേപ് കോളനി എന്ന് അടയാളപ്പെടുത്തിയ ഒരു പിങ്ക് ഭാഗം കാണാം അത് ബ്രിട്ടീഷുകാരുടെ കോളനിയാണ് ഇനി വലതു ഭാഗത്തുള്ള ഭൂപടവും അതിലെ തിയ്യതിയും നോക്കൂ ഈ രണ്ടു ഭൂപടങ്ങളുടെയും മേലെ അവയുടെ തിയ്യതികൾ കൊടുത്തിട്ടുണ്ട് അതായത് ആദ്യത്തെ ഭൂപടം 1880 ലെ ആഫ്രിക്കയുടേതും രണ്ടാമത്തേത് 1913 ലെയുമാണ് ആദ്യത്തേത് രണ്ടാമത്തേതുമായി താരതമ്യം ചെയ്യുമ്പോൾ വ്യത്യാസം വളരെ ഞെട്ടിപ്പിക്കുന്നതാണ് കാരണം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് പോലെ 1913 ൽ ആഫ്രിക്കയുടെ ഭൂരിഭാഗവും വലിയ അതിരുകളായി വിഭജിച്ചിരുന്നു നിറങ്ങൾ കൊണ്ട് വിഭജിച്ച ഓരോ വലിയ അതിരുകളും ഏതെങ്കിലും യൂറോപ്യൻ ശക്തികളുടെ കോളനിയെ കാണിക്കുന്നു ഉദാഹരണത്തിന് അൾജീരിയ സ്ഥിതി ചെയ്യുന്ന വടക്ക് മുതൽ തുടങ്ങി ഭൂഖണ്ഡത്തിന്റെ മധ്യ ഭാഗം വരെ തുടരുന്ന നീല നിറത്തിലുള്ള ഭാഗം ആഫ്രിക്കയിലെ ഫ്രഞ്ച് കോളനിയെ പ്രതിനിധീകരിക്കുന്നു ഭൂഖണ്ഡത്തിൽ എല്ലായിടങ്ങളിലുമുള്ള പിങ്ക് ഭാഗം ആഫ്രിക്കയിലെ ബ്രിട്ടീഷ് കോളനിയെ കാണിക്കുന്നു വയലറ്റ് നിറമുള്ള ഭാഗങ്ങൾ ആഫ്രിക്കയിലെ ബെൽജിയൻ കോളനി ആയിരുന്ന കോംഗോ പ്രദേശമാണ് കോൺറാഡ് 'ഹാർട്ട് ഓഫ് ഡാർക്നെസ്' സ്ഥാപിച്ചിട്ടുള്ള സ്ഥലവും ഇതാണ് ഈ രണ്ട് പ്രദേശങ്ങളും മാറ്റി നിർത്തിയാൽ ആഫ്രിക്കയുടെ കിഴക്ക് മഞ്ഞ നിറത്തിലുള്ളത് എത്തിയോപ്യ രാജ്യത്തെയും ഇളം നീല നിറത്തിലുള്ള ഭാഗം ലൈബീരിയേയും പ്രതിനിധീകരിക്കുന്നു ഈ രണ്ട് പ്രദേശങ്ങൾക്ക് പുറമെ 1913 ആയപ്പോഴേക്കും ആഫ്രിക്ക മുഴുവനായും പല യൂറോപ്യൻ ശക്തികളുടെയും കോളനികളായി വിഭജിച്ചിട്ടുണ്ടായിരുന്നു ഭൂഖണ്ഡം മുഴുവൻ വിഭജിക്കാനുള്ള തീരുമാനം എടുത്ത 1884 മുതൽ 1885 വരെ നടന്ന ബെർലിൻ സമ്മേളനത്തിൽ അമേരിക്കയും സ്വിറ്റ്സർലൻഡും ഒഴികെയുള്ള മറ്റു എല്ലാ പാശ്ചാത്യ രാജ്യങ്ങളും പങ്കെടുത്തിരുന്നു പക്ഷെ ഏറ്റവും പ്രധാനമായി ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം വരാൻ പോവുന്ന ആഫ്രിക്കയുടെ ദശാബ്ദങ്ങൾ തീരുമാനിക്കപ്പെട്ട ഈ സമ്മേളനത്തിൽ ഒരു ആഫ്രിക്കൻ പ്രതിനിധി പോലും ഉണ്ടായിരുന്നില്ല എന്നത് ഒരു വിരോധാഭാസമാണ് അതായത് 1884 1885ലെ ബെർലിൻ യോഗത്തിൽ ഒരു ആഫ്രിക്കൻ പ്രതിനിധിയും ഉണ്ടായിരുന്നില്ല അത്തരം ഒരു സന്ദർഭം ഇന്ന് വളരെ യുക്തിഹീനമാണെന്ന് എനിക്കുറപ്പാണ് എങ്ങനെയാണ് ഒരു മുഴുവൻ ഭൂഖണ്ഡത്തിന്റെയും വിധി അവിടെയുള്ള ഒരാളുടെ പോലും പ്രാതിനിധ്യം ഇല്ലാതെ തീരുമാനിക്കുന്നത് അത് യുക്തിഹീനമാണെന്നതിൽ തർക്കമില്ല ഈ വസ്തുത എങ്ങനെയാണ് കൊളോണിയലിസം പ്രവർത്തിക്കുന്നത് എന്നതിനെ പറ്റി സൂചന നൽകുന്നു നമ്മൾ തുടർച്ചയായി കൊളോണിയലിസത്തെ പരാമർശിക്കുന്നത് ചൂഷണത്തിന്റെയും സമ്മർദ്ദത്തിന്റെയും രൂപമായിട്ടാണ് കാരണം അത് ഒരിക്കലും ലാഭമുണ്ടാക്കുന്ന സംരംഭങ്ങൾ നിലനിർത്താൻ വേണ്ടി ഉപയോഗിക്കുന്നത് ആരുടെ അധ്വാനവും സ്രോതസുകളും ആണോ അവരുമായിട്ട് യാതൊരു കൂടിയാലോചനയും നടത്തുന്നില്ല അതിനാൽ കോളനിവൽക്കരണത്തിനകത്തു കോളനിവൽക്കരിക്കപ്പെട്ട ജനത ശബ്ദമില്ലാതെ മാറ്റിനിർത്തപ്പെടുന്നു ഇനി ബെർലിൻ യോഗത്തെ സംബന്ധിച്ച് നമ്മൾ മനസിലാക്കേണ്ടത് അത് ആഫ്രിക്കയുടെയും അവിടുത്തെ ജനതയുടെയും വിധി തീരുമാനിച്ചെങ്കിലും ആ യോഗം ആഫ്രിക്കക്കാരെക്കുറിച്ചുള്ള യാതൊരു തരത്തിലുള്ള ഉത്കണ്ഠ കൊണ്ടും പ്രചോദനം കൊണ്ടതല്ല പകരം ആ യോഗം കൊണ്ടു വരാൻ ശ്രമിച്ചത് യൂറോപ്പിലെ അധികാര സന്തുലിതാവസ്ഥയും 1880ൽ പൊട്ടി പുറപ്പെട്ട ആഫ്രിക്കക്കായുള്ള സ്ക്രാമ്പിൾ എന്ന് അറിയപ്പെട്ട ഒരു തീരുമാനവുമാണ് ആഫ്രിക്കക്ക് വേണ്ടിയുള്ള സ്ക്രാമ്പിൾ എന്ന് പറയുന്നത് ആഫ്രിക്കൻ സാഹചര്യത്തെ കുറച്ചു കൂടി നന്നായി മനസിലാക്കാൻ നമുക്ക് വളരെ പ്രധാനപ്പെട്ട പദമാണ് ഈ പദത്തെ സൂക്ഷ്മമായി മനസിലാക്കാൻ നമുക്ക് ഈ കോഴ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന കോളനിവൽക്കരണത്തിനു വഴി കാട്ടുന്ന പ്രേരകങ്ങളുടെ പിന്നാലെ പോവേണ്ടതുണ്ട് തുടക്കം മുതൽ ഞാൻ കോളനിവൽക്കരണത്തെയും കോളോണിയൽ സംരംഭത്തെയും മുതലാളിത്തവുമായി ബന്ധിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് ആഫ്രിക്കയുമായും ആഫ്രിക്കൻ കോളനിവൽക്കരണവുമായും ഇവയ്ക്ക് ബന്ധമുള്ളതു കൊണ്ട് മുതലാളിത്തവും കോളനിവൽക്കരണവും തമ്മിലുള്ള ബന്ധത്തേക്കുറിച്ച് ഇവിടെ വളരെ ചുരുക്കി മാത്രമേ ഞാൻ സംസാരിക്കുന്നുള്ളു അതുകൊണ്ട് ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള ചോദ്യം ചോദിച്ചു കൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം എന്താണ് മുതലാളിത്തം ഏറ്റവും ലളിതമായി മുതലാളിത്തത്തെ കൂടുതൽ ധനമുണ്ടാക്കുന്നതിനോ ലാഭമുണ്ടാക്കുന്നതിനോ ആയുള്ള മൂലധനത്തിന്റെ അല്ലെങ്കിൽ പണത്തിൻറെ നിക്ഷേപം എന്ന് നിർവചിക്കാം ഏകദേശം പതിനഞ്ചാം നൂറ്റാണ്ടു തൊട്ട് യൂറോപ് ജന്മി സാമ്പത്തിക വ്യവസ്ഥയിൽ നിന്നും മുതലാളിത്ത വ്യവസ്ഥയിലേക്ക് നീങ്ങാൻ തുടങ്ങിയിരുന്നു തീർച്ചയായും അത് ക്രമേണയുള്ള ഒരു പുരോഗതി ആയിരുന്നു മുതലാളിത്തത്തിന്റെ ഈ പുരോഗതി പല ഘട്ടങ്ങളിലൂടെ കടന്നുപോയി ഇന്നും മുതലാളിത്തം എന്ന് പറയുന്നത് തുടരെ തുടരെ പുതുക്കുന്നതും പുതിയ രൂപങ്ങൾ കൈവരിക്കുന്നതുമായ ഒരു ശക്തിയാണ് ആഫ്രിക്കയെ കുറിച്ചുള്ള നമ്മുടെ ചർച്ചകളിൽ വ്യാവസായിക രീതിയിലുള്ള ഉത്പാദനവുമായി ബന്ധപ്പെട്ടു കിടക്കുന്ന മുതലാളിത്തം ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത് പതിനെട്ടാം നൂറ്റാണ്ടാവുമ്പോഴേക്കും വ്യവസായവൽക്കരണത്തിന് യൂറോപ്പ് സാക്ഷിയായി അതിനാൽ ഉത്പാദനത്തിനുള്ള പല യൂറോപ്യൻ രാജ്യങ്ങളുടെയും കഴിവ് ഈ ഉത്പന്നങ്ങൾ ഗാർഹികമായി ഉപയോഗിക്കാനുള്ള കഴിവിനേക്കാൾ അധികരിക്കുകയുണ്ടായി പക്ഷെ ഈ മിച്ച ഉത്പന്നങ്ങൾ മിച്ച ചരക്കുകൾ വലിയ തോതിൽ ലാഭം നേടുന്നതിനായി ഉൽപാദിപ്പിച്ചു ഇപ്പോൾ നമ്മൾ ലാഭത്തേക്കുറിച്ചും മുതലാളിത്തത്തേക്കുറിച്ചും സംസാരിക്കുന്ന സമയത്ത് ലാഭത്തെ കുറിചുള്ള താല്പര്യമുണർത്തുന്ന ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു മുതലാളിത്വത്തിൽ പ്രോഫിറ്റ് മാർജിൻ എപ്പോഴും താഴോട്ടാണ് എന്നതാണത് എന്താണ് ഞാനിതു കൊണ്ട് ഉദ്ദേശിച്ചത് ഞാൻ എന്റെ വ്യവസായത്തിൽ ഷർട്ട് ഉത്പാദിപ്പിക്കുന്നു എന്ന് കരുതുക ഞാൻ ഒരു ഷർട്ട് വിൽക്കുന്നത് നൂറു രൂപയ്ക്കാണ് മുതലാളിത്വത്തിൽ എപ്പോഴും മത്സരം ഉണ്ടാവും അതായത് നാളെ ചിലപ്പോൾ മറ്റൊരാൾ ഇതേ ഷർട്ട് ഉത്പാദിപ്പിക്കുകയും എന്നെ മത്സരത്തിൽ നിന്ന് ഒഴിവാക്കാനായി അയാളുടെ പ്രോഫിറ്റ് മാർജിൻ 50 ആക്കി കുറച്ചു വിൽക്കാൻ തുടങ്ങാം അതായത് ഭാവിയിൽ ഈ ഓട്ടത്തിൽ നിലനിൽക്കാൻ വേണ്ടി എനിക്ക് എന്റെ പ്രോഫിറ്റ് മാർജിൻ 50ലും താഴെ ആക്കേണ്ടി വരും അതിന്റെ ഫലമായി മുതലാളിത്ത ഉത്പാദന രീതിയുടെ അകത്തു വരുന്ന പ്രോഫിറ്റ് മാർജിൻ തുടരെ താഴുന്നതായി കാണാം എപ്പോഴും താഴ്ന്നു കൊണ്ടിരിക്കുന്ന പ്രോഫിറ്റ് മാർജിൻ രണ്ട് രീതിയിൽ മാത്രമേ നിങ്ങൾക്ക് താങ്ങി നിർത്താൻ സാധിക്കുകയുള്ളു നിങ്ങളുടെ ഉത്പന്നത്തിനുള്ള വിപണി കൂട്ടുക എന്നതാണ് ഒരു വഴി മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ മുമ്പ് നിങ്ങൾ ഒരാൾക്ക് ഒരു ഷർട്ട് വിറ്റപ്പോൾ 100 രൂപ കിട്ടി സാഹചര്യങ്ങൾ മാറിയപ്പോൾ പ്രോഫിറ്റ് മാർജിൻ 50 ലേക്ക് താഴ്ന്നു ഇതേ ലാഭം ഇനി നിങ്ങൾക്ക് ഉണ്ടാക്കാൻ രണ്ടു പേർക്ക് ഷർട്ട് വിൽക്കേണ്ടതായി വരും നിങ്ങൾ രണ്ട് ഷർട്ട് ഉണ്ടാക്കുകയും അത് രണ്ട് പേർക്ക് വിൽക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് അതേ ലാഭം കിട്ടും നിങ്ങളുടെ പ്രോഫിറ്റ് മാർജിൻ വീണ്ടും കുറയുകയാണെങ്കിൽ ഉദാഹരണത്തിന് 1 രൂപ ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് വലിയൊരു വിപണി കണ്ടെത്തേണ്ടതായിട്ട് വരും അതായത് നിങ്ങൾക്ക് നൂറു രൂപ ലാഭം ഉണ്ടാക്കാൻ 100 പേർക്ക് അത് വിൽക്കേണ്ടി വരും അതിനാൽ നിങ്ങളുടെ വിപണി തുടർച്ചയായി വർദ്ധിപ്പിക്കുന്നതിലൂടെ മത്സരത്തിന് മുമ്പ് നിങ്ങൾക്ക് കിട്ടിയ അതേ ലാഭം നിങ്ങൾക്ക് ഇപ്പോഴും നേടാനാകും അടുത്ത വഴി എന്ന് പറയുന്നത് സാധാരണയായി ആദ്യത്തെ വഴിയുമായി ബന്ധമുള്ളതാണ് പ്രോഫിറ്റ് മാർജിൻ കുറയുന്നുണ്ടെങ്കിൽ കൂടി ഉത്പാദനത്തിനുപയോഗിക്കുന്ന അസംസ്കൃതവസ്തുക്കളുടെ വില കുറയ്കാനുള്ള വഴി നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കുമെങ്കിൽ വിപണിയിൽ നിങ്ങൾക്ക് നിലനിൽക്കാനാകും ഉദാഹരണത്തിന് നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും കുറഞ്ഞ വിലയ്ക്ക് കോട്ടൺ ലഭിക്കുമെങ്കിൽ മത്സരം കാരണം നിങ്ങളുടെ ഷർട്ടിന്റെ വില താഴ്ന്നു പോയാലും നിങ്ങൾക്ക് ലാഭം നേടാൻ കഴിയും കാരണം ആത്യന്തികമായി എന്താണ് ലാഭം ഒരു ഉത്പന്നം ഉണ്ടാക്കുവാനാവശ്യമായ അസംസ്കൃതവസ്തുക്കളുടെയും തൊഴിൽ വേതനത്തിന്റെയും ചിലവും ആ ഉത്പന്നതിന്റെ വിറ്റ വിലയും തമ്മിലുള്ള വ്യത്യാസം ആണ് ലാഭം അതിനാൽ നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും അസംസ്കൃതവസ്തുക്കളുടെ വിലയും അധ്വാനവും കുറക്കാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ ഉത്പന്നത്തിന്റെ അവസാന വില താഴോട്ടു വന്നാലും ആ വ്യത്യാസവും ലാഭവും നിലനിർത്താൻ സാധിക്കും ആൽബർട്ട് ആഡു ബോഹെൻ പറയുന്നതനുസരിച്ച് വ്യവസായങ്ങളെ നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള ഒരു വലിയ വിപണിക്കായുള്ള അന്വേഷണവും വിലകുറഞ്ഞ അസംസ്കൃത വസ്തുക്കൾക്കായുള്ള അന്വേഷണവുമാണ് ആഫ്രിക്കയെ പടിഞ്ഞാറ് കോളനിവത്കരിക്കാനുള്ള പ്രധാന കാരണം അതിനാൽ പത്തൊൻപതാം നൂറ്റാണ്ടോടെ വ്യാവസായിക ഉൽപാദന രീതി യൂറോപ്യൻ രാജ്യങ്ങളിൽ മിക്കവർക്കും ഒരു മാനദണ്ഡമായിത്തീർന്നു അതുവഴി അവർ നിരന്തരം വിലകുറഞ്ഞ അസംസ്കൃത വസ്തുക്കളും അതുപോലെ തന്നെ തങ്ങളുടെ ഉത്പന്നങ്ങൾക്കുള്ള വലിയ വിപണിയും നിരന്തരം അന്വേഷിച്ചിരുന്നു ഇത് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിനു മേൽ പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളെ അതിന്റെ വിഭവങ്ങൾക്കായി ആകർഷിച്ചു യൂറോപ്യൻ വ്യവസായങ്ങൾ 1880 വരെ ഇവ വലിയ തോതിൽ ഉപയോഗിച്ചിരുന്നില്ല യൂറോപ്യൻ ചരക്കുകളുടെ വിപണിയാകാനുള്ള ആഫ്രിക്കയുടെ കഴിവും ഈ ആകർഷണത്തിന് കാരണമാണ് ഈ ഒരു ഘട്ടത്തിൽ ആഫ്രിക്ക വളരെക്കാലം മുമ്പ് തന്നെ പടിഞ്ഞാറൻ രാജ്യങ്ങൾ തങ്ങളുടെ വ്യവസായങ്ങൾക്കായി അടിമകളെ തേടിയിരുന്ന സ്ഥലമായിരുന്നുവെന്ന് ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു 1830 കളിൽ പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ അടിമത്തം നിരോധിക്കപ്പെടുന്നതു വരെയും ആഫ്രിക്കയിൽ അടിമക്കച്ചവടം നിർത്തുന്നത് വരെയും ഇത് തുടർന്നു പക്ഷെ 1880 നു മുമ്പ് തന്നെ യൂറോപ്പ് ആഫ്രിക്കയുമായി മറ്റൊരു വാണിജ്യത്തിൽ ഏർപ്പെട്ടിരുന്നു അത് മനുഷ്യരുടെ കച്ചവടം ആയിരുന്നു പ്രധാനമായും ഇവിടെ മനസ്സിൽ വെക്കേണ്ട കാര്യം എന്തെന്നാൽ അടിമക്കച്ചവടത്തിൻറെ ഈ കാലത്ത് പാശ്ചാത്യ ശക്തികളുടെ നേരിട്ടുള്ള പ്രഭാവം ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിന്റെ തീരങ്ങളിൽ വളരെ ചുരുങ്ങിയ തോതിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളു പക്ഷെ 1870 നു ശേഷം പുതിയൊരു കാര്യം സംഭവിക്കാൻ തുടങ്ങി ഫ്രാൻസും ബെൽജിയവും അവരുടെ കൊളോണിയൽ സാന്നിധ്യം വൻകരയിൽ വ്യാപിപ്പിക്കുവാനുള്ള താല്പര്യം കാണിച്ചു തുടങ്ങി ഫ്രാൻസിന്റെയും ബെൽജിയത്തിന്റെയും ഈ വ്യാപനതന്ത്രം ബ്രിട്ടൻ പോർച്ചുഗൽ ജർമനി പോലുള്ള മറ്റു യൂറോപ്യൻ ശക്തികൾക്കിടയിൽ കാര്യമായ പരിഭ്രമത്തിനു കാരണമായി കാരണം 1870 ആവുമ്പോഴേക്കും ഇവരെല്ലാം തന്നെ വലിയ വ്യവസായിക രാജ്യങ്ങളായി മാറുകയും അവരെപ്പോഴും വലിയ വിപണിയുടെയും ചെലവ് കുറഞ്ഞ അസംസ്കൃതവസ്തുക്കളുടെയും അന്വേഷണത്തിൽ ആയിരുന്നെന്നും നമ്മൾ ഓർക്കേണ്ടതുണ്ട് ഭൂഖന്ധം മുഴുവൻ രണ്ടു രാജ്യങ്ങളാൽ മാത്രമായി കോളനിവൽക്കരിക്കപ്പെടാൻ അനുവദിക്കാതിരിക്കാൻ മറ്റു രാജ്യങ്ങളും ആഫ്രിക്കയിലേക്ക് കടന്നു വന്നു ഇത് ആ പാശ്ചാത്യ രാജ്യങ്ങൾ തമ്മിൽ ഒരു മത്സരത്തിനു വഴിവെച്ചു ഏകദേശം 1880 കളിൽ ഫ്രാൻസ് ബെൽജിയം ബ്രിട്ടൻ ജർമ്മനി പോർച്ചുഗൽ പോലുള്ള രാജ്യങ്ങൾ ആഫ്രിക്കയെ കോളനിവൽക്കരിക്കാനുള്ള മത്സരത്തിൽ പങ്കു ചേർന്നു ഈ ഓട്ടമത്സരമാണ് ആഫ്രിക്കയ്ക്ക് വേണ്ടിയുള്ള സ്ക്രാമ്പിൾ എന്ന് അറിയപ്പെടുന്നത് 1884 1885 ലെ ബെർലിൻ സമ്മേളനം യൂറോപ്പുകരുടെ ഇടയിലുള്ള ഈ മത്സരത്തിന്റെ ഫലമായി ഉണ്ടായ തർക്കം സൌഹൃദപരമായി തീർക്കാനുള്ള അവരുടെ തന്നെ ശ്രമമായിരുന്നു അതുകൊണ്ട് തന്നെ ആ സമ്മേളനത്തിൽ ഒരു ആഫ്രിക്കക്കാരൻ പോലും ഉണ്ടായിരുന്നില്ല എന്നത് അത്ര അത്ഭുതകരമായ കാര്യമൊന്നുമല്ല കാരണം ഞാൻ പറഞ്ഞത് പോലെ ആ യോഗം ആത്യന്തികമായി അവരുടെ ഇടയിലുള്ള മത്സരം ഒത്തുതീർപ്പാക്കാനുള്ള ശ്രമമായിരുന്നു ആ തർക്കം തീർത്തത് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തെ സൌഹൃദപരമായി അവരുടെ ഇടയിൽ തന്നെ ഒരു കേക്ക് പോലെ മുറിച്ചു ഭാഗിച്ചു കൊണ്ടായിരുന്നു പക്ഷെ ഇത് കഥയുടെ ഒരു വശം മാത്രമല്ലെ തങ്ങളുടെ നാടിനെ യൂറോപ്യൻ കോളനികളാക്കി ഭാഗിക്കാനുള്ള യൂറോപ്പുകരുടെ ശ്രമത്തോട് ആഫ്രിക്കക്കാർ എങ്ങനെയാണു പ്രതികരിച്ചത് എന്ന് കൂടി നമ്മൾ ചോദിക്കേണ്ടതായിട്ടുണ്ട് ആഫ്രിക്കൻ പ്രതികരണങ്ങൾ വ്യത്യസ്തമായിരുന്നു ചില ആഫ്രിക്കൻ രാജ്യങ്ങൾ അവരെ മറ്റു ആഫ്രിക്കൻ രാജ്യങ്ങളുടെ ശത്രുതയിൽ നിന്നും സ്വയം സംരക്ഷിക്കുന്നതിനായി പല യൂറോപ്യൻ ശക്തികളോടും നല്ല ബന്ധം പുലർത്തിയിരുന്നു ഇത്തരത്തിലുള്ള ബന്ധങ്ങളുടെ കഥകളുണ്ടെങ്കിലും യൂറോപ്യൻ കോളനിവൽക്കരണത്തോട് ആഫ്രിക്കക്കാരുടെ പ്രതികരണം സൈനിക പ്രതിരോധത്തിലൂടെയായിരുന്നു ഈ പ്രതിരോധത്തിനോട് യുദ്ധക്കളത്തിൽ വെച്ച് കൂട്ടിമുട്ടിയത് മാക്സിം ഗൺ ഗ്രാസ് റിപീറ്റർ റൈഫൽ പോലെയുള്ള വികസിതമായ ആഫ്രിക്കക്കാരുടെ കൈവശമില്ലാതിരുന്ന യൂറോപ്യൻ സൈനിക സാങ്കേതിക വിദ്യകളായിരുന്നു യുദ്ധഭൂമിയിൽ യൂറോപ്യൻക്കാർ നേരിട്ട ആഫ്രിക്കൻ സൈന്യത്തെ ഇത് ശരിക്കും നശിപ്പിച്ചു അതിന്റെ ഫലമായി ബെർലിൻ സമ്മേളനത്തിൻറെ ഒരു ദശാബ്ദത്തിനുള്ളിൽ എത്തിയോപ്യയും ലൈബീരിയയും ഒഴികെയുള്ള മറ്റെല്ലാ ആഫ്രിക്കൻ നാട്ടുരാജ്യങ്ങൾക്കും അവരുടെ സ്വാതന്ത്ര്യം നഷ്ടമാവുകയും അവ യൂറോപ്യൻ കോളനികളായി മാറുകയും ചെയ്തു നമ്മുടെ മുമ്പത്തെ ചർച്ചയിൽ നിന്ന് നമുക്കറിയാവുന്നതുപോലെ കൊളോണിയലിസത്തിന്റെ വിശേഷണമായ ഈ സൈനിക കോളനിവൽക്കരണം ആഫ്രിക്കക്കാരെ യൂറോപ്യൻ അടിച്ചമർത്തലിന്റെ ഇരകളായി അവതരിപ്പിക്കുന്നതിനു പകരം അവരെ യൂറോപ്യൻ കോളനിക്കാർ അവരോടൊപ്പം കൊണ്ടുവരുന്ന നാഗരികതയുടെ വെളിച്ചത്തിൽ നിന്ന് പ്രയോജനം നേടാൻ പോകുന്ന പക്വതയില്ലാത്ത ക്രൂരന്മാരും കിരാതന്മാരുമായി ചിത്രീകരിച്ച് ക്രൂരമായ കോളനിവൽക്കരണത്തെ ഒരു പരിഷ്ക്കരണ ദൌത്യമായി മാറ്റുന്ന കൊളോണിയൽ വ്യവഹാരത്താൽ അനുഗമിച്ചിട്ടുണ്ടായിരുന്നു നമുക്കെല്ലാം തന്നെ അറിയാവുന്ന കാര്യമാണ് കൊളോണിയൽ വ്യവഹാരം എന്നത് പരിഷ്ക്കരണ ദൌത്യമാണെന്നുള്ളത് എങ്ങനെയായാലും ബോഹാൻ ഈ കൊളോണിയൽ വ്യവഹാരത്തിനു വിപരീതമായി അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ പറയുന്നത് യൂറോപ്പുക്കാർ അടിച്ചമർത്തിയിരുന്ന ആഫ്രിക്കക്കാർ അപരിഷകൃതരേക്കാളും കിരാതരേക്കാളും ഏറെ ദൂരെയായിരുന്നു എന്നതാണ് അവർക്ക് വളരെ വലുതും സമ്പന്നവുമായ സാംസ്കാരിക പാരമ്പര്യം ഉണ്ടായിരുന്നെന്നു മാത്രമല്ല അവർ സാമൂഹ്യപരമായും സാമ്പത്തികപരമായും 1880 ന് മുമ്പേ വരെ ആഫ്രിക്കയ്ക്ക് വേണ്ടിയുള്ള പിടിയും വലിയും ആരംഭിക്കുവോളവും അവരുടെ സ്വാതന്ത്ര്യം അവസാനിക്കുന്നത് വരെയും അഭിവൃദ്ധി പ്രാപിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു വാസ്തവത്തിൽ 1870 കളിൽ 1830 വരെ നിലനിന്നിരുന്ന അടിമക്കച്ചവടത്തിന്റെ ദോഷഫലങ്ങളാൽ ആഫ്രിക്കൻ രാജ്യങ്ങൾ വലിയ തോതിൽ കുലുങ്ങിയിരുന്നു അവർ പിന്നീട് വ്യാപാരത്തിന്റെ കാര്യത്തിൽ അഭിവൃദ്ധി പ്രാപിച്ചു തുടങ്ങുകയും ചെയ്തു സമ്പത്തിന്റെ കൂടുതൽ തുല്യമായ വിതരണത്തിന് ആഫ്രിക്കൻ സമൂഹങ്ങൾ സാക്ഷ്യം വഹിച്ചു വാണിജ്യത്തിന്റെ ആവശ്യകത അടിസ്ഥാന സൌകര്യവികസനത്തിനും കാരണമായിത്തീർന്നിട്ടുണ്ട് ഉദാഹരണത്തിന് കരയിലെയും നദികളിലെയും പാതകളെ വലിയ വ്യാപാര ശൃംഖലകൾക്കായി ബന്ധിപ്പിച്ചിരുന്നു ആഫ്രിക്കൻ ജനസംഖ്യയും 1880 ന് മുമ്പേ വരെ വർദ്ധിച്ചുകൊണ്ടിരുന്നു ഇത് ഒരു പുരോഗതിയുടെ അടയാളമായിരുന്നു കാരണം അടിമക്കച്ചവടം ആഫ്രിക്കൻ ജനതയെ ഗണ്യമായി കുറച്ചിരുന്നു തീർച്ചയായും 1880 കൾക്ക് ശേഷമുള്ള കൊളോണിയലിസം വീണ്ടും ഈ ജനസംഖ്യാ പ്രവണതയെ മാറ്റിമറിക്കാൻ പോവുകയായിരുന്നു ജനസംഖ്യ വീണ്ടും കുറയാൻ പോവുകയായിരുന്നു ഇത് ആഫ്രിക്കയുടെയും ആഫ്രിക്കക്കാരുടെയും പൊതുവായ ദാരിദ്ര്യാവസ്ഥയെ സൂചിപ്പിക്കുന്നു അവസാനമായി ഭരണഘടനാ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട രസകരമായ നിരവധി പരീക്ഷണങ്ങൾ പ്രീ കൊളോണിയൽ ആഫ്രിക്കയിലും പ്രത്യേകിച്ച് ഘാന പോലുള്ള സ്ഥലങ്ങളിലും നടക്കുന്നുണ്ടായിരുന്നു ഇത് യൂറോപ്പുകാർ ആഫ്രിക്കയെ മുഴുവനായി തങ്ങളുടേതാണെന്ന് അവകാശപ്പെടുന്നതിന്റെയും ആഫ്രിക്കക്കാരെ ക്രൂരന്മാരായി പ്രഖ്യാപിക്കുന്നതിന്റെയും ഈ പുരോഗതികളുടെയും വികസനങ്ങളുടെയും അടയാളങ്ങൾ മുഴുവനായും തുടച്ചു നീക്കുന്നതിന്റേയും മുന്നെയാണ് നമ്മുടെ അടുത്ത ലക്ച്ചറിൽ നമ്മൾ ഹാർട്ട് ഓഫ് ഡാർക്നെസ്സ് നോവലിലേക്ക് മടങ്ങും പക്ഷെ കൊളോണിയൽ പ്രീ കൊളോണിയൽ ആഫ്രിക്കൻ പശ്ചാത്തലത്തെക്കുറിച്ചുള്ള ഈ പുതിയ അവബോധത്തോടെയാവുമത് ഈ ആഫ്രിക്കൻ വീക്ഷണം ബ്രിട്ടീഷ് സാഹിത്യത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ഒരു നോവലിനെ കോണ്ട്രാപ്പന്റലി വായിക്കാൻ ഇടയാക്കുന്നതെങ്ങനെയെന്നതും നമ്മൾ കാണും